നമസ്കാരം അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് മാക്സിമം പവർ ട്രാൻസ്ഫർ സിദ്ധാന്തത്തെ കുറിച്ചാണ് നമ്മൾ കുറച്ച് ഉദാഹരണങ്ങൾ എടുത്തു സ്വതന്ത്ര സ്രോതസ്സുകൾ സർക്യൂട്ടിൽ ഉള്ളത് ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ലക്ച്ചർ തുടങ്ങാം ഈ ലെക്ച്ചറിൽ നമ്മൾ കൂടുതലായി ശ്രദ്ധ ചെലുത്തുന്നത് ആശ്രിത ശ്രോതസ്സുകൾ ഉള്ള സർക്യൂട്ടിൽ ആണ് കൂടാതെ നമ്മൾ മാക്സിമം പവർ ട്രാൻസ്ഫർ സർക്യൂട്ടിൽ പരിഹരിക്കാൻ ശ്രമിക്കും അപ്പോൾ ആശ്രിത സ്രോതസ്സ് അവസ്ഥയിലേക്ക് പോകുന്നതിനു മുൻപേ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് എന്താണെന്ന് മനസ്സിലാക്കാൻ നോക്കാം നമ്മൾ ചർച്ച ചെയ്തത് മാക്സിമം പവർ ട്രാൻസ്ഫർ സിദ്ധാന്തം ആണ് നമ്മൾ പറഞ്ഞു മാക്സിമം പവർ ലോഡിലേക്ക് മാറ്റുന്നത് നെറ്റ്വർക്കിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ടെർമിനലിൽ നിന്ന് നോക്കുമ്പോൾ ലോഡ് ഘടിപ്പിച്ചിട്ടുള്ള ഇടത്തു നിന്ന് ഇത് ലോഡിന് തുല്യമായിരിക്കും ഇത് ചെയ്യുന്നതിനായി നമ്മൾ തെവനിയൻ തുല്യത ഉപയോഗിക്കും കാരണം ഈ നെറ്റ്വർക്ക് നോക്കിയാൽ അതായത് കുറേ സ്രോതസ്സുകളും ഘടകങ്ങളും ഉള്ളത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ തെവനിയൻ തുല്യതയിലേക്ക് മാറ്റണം ഇത് ഈ ചിത്രത്തിലുണ്ട് എന്നിട്ട് മാക്സിമം പവർ ട്രാൻസ്ഫർ വിശകലനം ചെയ്യാം തെവനിയൻ തുല്യത മാക്സിമം പവർ കണ്ടു പിടിക്കുന്നതിനായി വളരെ സഹായകമാണ് ഒരു ലീനിയർ സർക്യൂട്ട് ലോഡിലേക്ക് കൊടുക്കുന്നത് കൂടാതെ നമ്മൾ ചർച്ച ചെയ്തു ഈ സർക്യൂട്ട് മുഴുവനും തെവനിയൻ തുല്യതയും ആയി മാറ്റിവയ്ക്കാൻ സാധിക്കും പക്ഷേ ലോഡ് ഒഴികെ മൊത്തമായ സർക്യൂട്ട് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കാണിക്കാം ഇനി നമ്മൾ ചർച്ച ചെയ്തതാണ് ലോഡ് മാറ്റി കൊണ്ടിരുന്നാൽ പൂജ്യത്തിൽ നിന്ന് ഇൻഫിനിറ്റി യിലേക്ക് എങ്കിൽ ഒരു പോയിൻറ് ഉണ്ടാകും നമ്മുടെ ലോഡ് ആഗിരണം ചെയ്യുന്ന പവർ മാക്സിമം ആയിട്ട് ആ അവസ്ഥ വരുന്നത് എപ്പോഴാണ് എന്നുവെച്ചാൽ അതായത് ലോഡ് റെസിസ്റ്റൻസ് തെവനിയൻ റെസിസ്റ്റൻസ് ആയിട്ട് ഒന്നാകുമ്പോൾ കൂടാതെ നമ്മൾ പവർ ദൃഢീകരിക്കും അത് വേറൊന്നുമല്ല പക്ഷേ നമ്മൾ മാക്സിമം പവർ ട്രാൻസ്ഫർ അവസ്ഥ കണ്ടുപിടിച്ചു നമ്മൾ ഇത് എങ്ങനെ കണ്ടുപിടിച്ചു ഉപയോഗിച്ച് അതായത് പവർ p യുടെ ഡിഫറെൻസിയേഷൻ പരിവർത്തന വസ്തുവായിട്ട് അനുസൃതമായി അതായത് ലോഡ് നമ്മൾ സ്ഥിരീകരിച്ചു p യുടെ ഡെറിവേറ്റീവ് നു അനുസൃതമായിട്ടു ഉള്ളത് 0 ആകുമ്പോൾ ആകുമ്പോൾ മാക്സിമം പവർ ലോഡിലേക്ക് മാറ്റുന്നത് ആയിരിക്കും ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് പോലെ മാക്സിമം പവർ ട്രാൻഫർ സംഭവിക്കുന്നത് ലോഡ് റസിസ്റ്റൻസ് തെവനിയൻ റസിസ്റ്റൻസ്നു തുല്യം ആകുമ്പോൾ ആണ് ഇത് നമ്മൾ പവർ p യുടെ ഡെറിവേറ്റീവ് അനുസൃതമായി എടുത്തപ്പോൾ കണ്ടുപിടിച്ചു ഇത് ഇപ്പോൾ പരിവർത്തന വസ്തുവാണ് നമുക്ക് അറിയാവുന്നതുപോലെ ഡെറിവേറ്റീവ് ഈ അവസ്ഥയിൽ പൂജ്യമായിരിക്കും ന്റെ മൂല്യം എത്രയായിരിക്കും നമ്മൾ ന്റെ മൂല്യം പവർ p യിലേക്ക് കൊടുത്താൽ പവർ മാക്സിമമോ മിനിമമോ ആകാം ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡെറിവേറ്റീവിന്റെ സഹായത്തോടെ നിശ്ചയിച്ച അവസ്ഥ മാക്സിമം ആണോ അല്ലയോ എന്നാണ് അതിനാൽ നമുക്ക് എന്തു ചെയ്യാം നമുക്ക് പവർ ന് അനുസൃതമായി ഡബിൾ ഡിഫറെൻസിയേറ്റ് ചെയ്യാം എന്നിട്ട് അത് പൂജ്യത്തിൽ കുറവാണെന്ന് തെളിയിക്കണം അപ്പോൾ അത് പൂജ്യത്തിൽ കുറവാകുമ്പോൾ അതായത് അതിൻറെ അർത്ഥം ന്റെ മൂല്യം നമ്മൾ കണ്ടുപിടിച്ചത് അതിന്റെ ഡെറിവേറ്റീവ് അതായത് മാക്സിമം ആയിരിക്കും അപ്പോൾ നമ്മൾ എങ്ങനെ പല ഘടകങ്ങളുടെ ന്റെ മൂല്യം കണ്ടുപിടിക്കും സർക്യൂട്ടിൽ ആശ്രിത ശ്രോതസ്സ് ഉള്ളപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ലോഡ് സർക്യൂട്ടിൽ നിന്ന് മാറ്റണം ഇനി ലോഡ് ഇല്ലാത്ത സർക്യൂട്ട് നമ്മളെന്തു ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ തെവനിയൻ തുല്യത ബാക്കി നെറ്റ്വർക്കിൽ കണ്ടുപിടിക്കണം അപ്പോൾ നമ്മൾ ആദ്യം തെവനിയൻ തുല്യത കണ്ടു പിടിക്കുമ്പോൾ ചെയ്യേണ്ടത് കണ്ടുപിടിക്കുക ഇവിടെ സ്വതന്ത്ര സ്രോതസ്സ് പൂജ്യത്തിനു തുല്യം ആക്കുക അതിൻറെ അർത്ഥം നമുക്ക് സ്വതന്ത്ര വോൾട്ടേജ് സ്രോതസ്സ് ഉണ്ടെങ്കിൽ കൂടാതെ സ്വതന്ത്ര കറണ്ട് സ്രോതസ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ആകും കൂടാതെ ആശ്രിത ശ്രോതസ്സുകൾ നെറ്റ്വർക്കിൽ ഘടിപ്പിച്ചിട്ടുള്ളത് നമ്മൾ ഉപേക്ഷിക്കും അങ്ങനെ തന്നെ ഇനി നെറ്റ്വർക്കിനെ വോൾട്ടേജ് സ്രോതസ്സ് വെച്ച് നിങ്ങൾ ഉത്തേജിപ്പിക്കും നിങ്ങൾക്ക് ഒന്നുങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിക്കാം നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ സർക്യൂട്ട് ലളിതം ആക്കാം 1 വോൾട്ട് സ്രോതസ്സ് ആയി ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു ആംപിയർ കറണ്ട് ആയും ടെർമിനലിലേക്ക് ഘടിപ്പിക്കുക അതായതു നേരത്തെ ലോഡ് ഘടിപ്പിച്ചിട്ടുള്ളിടത്തു ഇനി ന്റെ മൂല്യം കണ്ടുപിടിക്കുക അപ്പോൾ ആണ് ടെർമിനലിന് കുറുകെ ഉള്ള മൂല്യം ഇവിടെ ആണ് വോൾടേജ് സ്രോതസ്സോ കറണ്ട് സ്രോതസ്സോ ഘടിപ്പിച്ചിട്ടുള്ളത് ഇനി സ്രോതസ്സ് നൽകിയ കറണ്ട് അതായത് വെച്ചു ഹരിക്കുക ഇത് കഴിഞ്ഞു യോജിച്ച തെവനിയൻ വോൾടേജ് കണ്ടുപിടിക്കും അവസാനം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ നു തുല്യമാക്കണം കാരണം മാക്സിമം പവർ ട്രാൻസ്ഫർ സിദ്ധാന്തം പ്രകാരം നമ്മുടെ തെവനിയൻ റെസിസ്റ്റൻസ് ലോഡ് റെസിസ്റ്റർനോട് തുല്യമായിരിക്കണം കൂടാതെ ലോഡിലേക്ക് കൊടുക്കുന്ന മാക്സിമം പവർ ഇത്ര ആയിരിക്കണം

അപ്പോൾ ഈ സമ്പ്രദായം ഉപയോഗിച്ച് നമ്മൾ ലോഡിലേക്ക് മാറ്റപ്പെടുന്ന മാക്സിമം പവർ കണ്ടുപിടിക്കും ആശ്രിത ശ്രോതസ്സുകൾ ഉള്ളപ്പോൾ ഒരു മാക്സിമം പവർ ട്രാൻസ്ഫർ സിദ്ധാന്തത്തിന്റെ ഉദാഹരണമെടുക്കാം എന്നിട്ട് ആശ്രിത സ്രോതസ്സ് അവസ്ഥയിലേക്ക് പോകാം സങ്കൽപ്പിക്കുക ഇതാണ് സർക്യൂട്ട് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് R ന്റെ മൂല്യം അതായത് മാക്സിമം പവർ ലോഡിലേക്ക് കൊടുക്കുന്നത് മൂന്ന് മില്ലി വാട്ട് ആണ് അപ്പോൾ നമ്മളോട് ലോഡ് അല്ല ചോദിച്ചിരിക്കുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അജ്ഞാതമായ റെസിസ്റ്റൻസ് R ന്റെ മൂല്യം ആണ് അതിനാൽ മാക്സിമം പവർ ലോഡിലേക്ക് കൊടുക്കുന്നത് മൂന്ന് മില്ലി വാട്ട് ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് തെവിനിയൻ തുല്യത ആണ് അപ്പോൾ തെവിനിയൻ തുല്യതയ്ക്ക് വേണ്ടി തുല്യമായ സർക്യൂട്ട് അത് റെസിസ്റ്റൻസ് നമ്മളെല്ലാ വോൾട്ടേജ് സ്രോതസ്സുകളും ഷോർട്ട് സർക്യൂട്ട് ചെയ്യും കാരണം നമുക്ക് ഇവിടെ 3 സ്വതന്ത്ര വോൾട്ടേജ് സ്രോതസ്സുകൾ ഉണ്ട് എന്നിട്ട് നമ്മൾ ലോഡ് നീക്കം ചെയ്യും എന്നിട്ട് നിങ്ങൾക്ക് കാണാം ഈ രണ്ട് ടെർമിനലിന് കുറുകെയുള്ള ഇൻപുട്ട് റെസിസ്റ്റൻസ് അപ്പോൾ ഈ സർക്യൂട്ട് നിങ്ങൾക്ക് എല്ലാ വോൾട്ടേജ്ജ് സ്രോതസ്സുകളും ഷോട്ട് സർക്യൂട്ട് ആക്കിയതിന് ശേഷം ഒരു തുല്യതാ സർക്യൂട്ട് ആയി കിട്ടും എന്നിട്ട് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ന്റെ മൂല്യം ഇവിടെ നിങ്ങൾക്ക് കാണാം 3 റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തു പറയാം വേറൊന്നുമല്ല പക്ഷേ ഈ രണ്ടു ടെർമിനലിന് കുറുകെ എന്നിട്ട് നിങ്ങൾക്ക് എഴുതാം അടുത്ത കൃത്യം എന്താണെന്ന് വെച്ചാൽ തെവനിയൻ വോൾട്ടേജ് കണ്ടുപിടിക്കുക എന്നതാണ് അപ്പോൾ സങ്കൽപ്പിക്കുക ഈ നോഡിൽ വോൾട്ടേജ് ആണെന്ന് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം കിർച്ചോഫ് കറണ്ട് ലോ ഉപയോഗിച്ച് ഈ നോഡിൽ എഴുതാം എന്നിട്ട് ന്റെ മൂല്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കാം അപ്പോൾ ഒരു വോൾട്ടിന് എന്ത് എഴുതാം എന്തായിരിക്കും കറണ്ട് അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ അവസ്ഥ ആണ് അപ്പോൾ ഇത് സർക്യൂട്ടിന്റെ അജ്ഞാതമായ റെസിസ്റ്റൻസ് R ന്റെ മൂല്യം കണ്ടുപിടിക്കാൻ സഹായിക്കും ഇത് ഉറപ്പുവരുത്തും സർക്യൂട്ടിലേക്ക് ഘടിപ്പിച്ചിട്ടുള്ള ലോഡിൽ 3 മില്ലി വാട്ട് പവർ കിട്ടുന്നുണ്ടെന്ന് ഇനി നമുക്ക് വേറൊരു ഉദാഹരണത്തിലേക്ക് വരാം ഇവിടെ ഒരു ആശ്രിത വോൾട്ടേജ് സ്രോതസ്സ് ഉണ്ട് ഇനി നമ്മൾ റസിസ്റ്റൻസ് മൂല്യം കണ്ടുപിടിക്കണം സങ്കൽപ്പിക്കുക ഇപ്പോൾ ഒരു ലോഡ് അതായത് ടെർമിനൽ എ ബി ക്ക് കുറുകെ ഘടിപ്പിച്ചിരിക്കുന്നു എന്ന് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ന്റെ മൂല്യം ഇത് സർക്യൂട്ടിൽ നിന്ന് മാക്സിമം പവർ ആഗിരണം ചെയ്യും അതായത് ഇതാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്ന സർക്യൂട്ട് അപ്പോൾ സർക്യൂട്ടിൽ നിന്ന് മാക്സിമം പവർ ആഗികരണം ചെയ്യുന്ന ലോഡ് നമ്മളെന്തു ചെയ്യണം നമ്മൾ ആദ്യം തെവനിയൻ തുല്യത അതായത് തെവനിയൻ തുല്യമായ റസിസ്റ്റൻസും കൂടാതെ ടെർമിനൽ എ ബി ക്ക് കുറുകെയുള്ള വോൾട്ടേജും കണ്ടുപിടിക്കണം അപ്പോൾ ആദ്യം എന്തു ചെയ്യും ആദ്യം നമ്മൾ സ്വതന്ത്ര വോൾട്ടേജ് സ്രോതസ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും സർക്യൂട്ടിൽ ആശ്രിത സ്രോതസ്സിനെ അങ്ങനെതന്നെ വെയ്ക്കും എന്നിട്ട് വോൾട്ടേജോ കറണ്ട് സ്രോതസ്സോ ഘടിപ്പിക്കുക സർക്യൂട്ട് പരിഹരിക്കുവാൻ ആയി ന്റെ മൂല്യം കണ്ടു പിടിക്കുന്നതിനായി അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഒരു മില്ലി ആംപിയർ കറണ്ട് ശ്രോതസ്സ് ടെർമിനൽ എ ബി ക്കു കുറുകെ ചേർക്കുന്നു എന്തുകൊണ്ട് ഒരു മില്ലി ആംപിയർ കാരണം റെസിസ്റ്റൻസ് R കിലോ ഓമിൽ ആണ് ഇവിടെ ഒരു മില്ലി ആമ്പിയർ ഘടിപ്പിക്കാം എന്തുകൊണ്ടെന്നാൽ സർക്യൂട്ട് ലളിതം ആകുവാൻ വേണ്ടി ഇത് ഉറപ്പുവരുത്തും വോൾട്ടേജ് വോൾട്ടിൽ തന്നെ ആണെന്ന് അപ്പോൾ ഈ സർക്യൂട്ട് കിട്ടി ഈ സർക്യൂട്ട് നോക്കുക ഇവിടെ വോൾട്ടേജ് സ്രോതസ്സ് കറണ്ട് സ്രോതസ്സ് ഇല്ല കാരണം നമ്മൾ ഘടിപ്പിച്ചിട്ടുള്ള വോൾട്ടേജ് സ്രോതസ്സ് ഈ ഭാഗത്ത് ഷോർട്ട് സർക്യൂട്ട് ആണ് നമുക്ക് ആശ്രിത വോൾട്ടേജ് സ്രോതസ്സ് മാത്രമാണ് ഉള്ളത് എന്നിട്ട് നമ്മൾ ഒരു മില്ലി ആമ്പിയർ പുറത്തുനിന്നുള്ള സ്രോതസ്സ് ആയിട്ട് ടെർമിനൽ എബി കുറുകെ സർക്യൂട്ടിലേക്ക് ഘടിപ്പിക്കുന്നു നമ്മൾ എന്തു ചെയ്യണം നോഡ് എയിൽ കിർച്ചോഫ് കറണ്ട് ലോ പ്രയോഗിക്കാം അപ്പോൾ അത് കറണ്ട് സ്രോതസ്സുകൾ നോഡ് എ യി ലൂടെ ഈ വശത്തു നിന്ന് കറണ്ട് കൊടുക്കുന്നു സങ്കൽപ്പിക്കാം ഈ രണ്ട് വിഭാഗങ്ങളിലെ കറൻറ്റ്ന്റെ ദിശ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ആണെന്ന് നമുക്ക് പറയാം ഒരു മില്ലി ആമ്പിയർ ഒന്നുമല്ല പക്ഷേ നോഡിൻറെ പുറത്തേക്ക് പോകുന്ന കറണ്ടിനു തുല്യം അപ്പോൾ ലോഡിൻറെ പുറത്തേക്ക് പോകുന്ന കറൻറ് ന്റെ മൂല്യം ഈ കറണ്ട് അത് നോഡ് വോൾട്ടേജ്ജിന്റെ മൂല്യം ആയിരിക്കും സങ്കൽപ്പിക്കുക നോഡ് വോൾട്ടേജ് ആണെന്ന് നോഡ് എയിൽ അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഈ വിഭാഗത്തിലെ സർക്യൂട്ട്ന്റെ സമവാക്യം അടുത്തത് സർക്യൂട്ട് നോക്കിയാൽ കാണാം സർക്യൂട്ട് നോക്കിയാൽ ഇവിടെ ഒരു സ്രോതസ്സും ഈ വിഭാഗത്തിൽ ഇല്ല ഇപ്പോൾ അതിൻറെ അർത്ഥം യുടെ മൂല്യം 0 ആണ് യുടെ മൂല്യം 0 കൂടാതെ യുടെ ഈ മൂല്യം 1 കിലോ ഓമിന് കുറുകെ അത് പരിവർത്തനവസ്തു ആണ് ഇത് ആശ്രിത വോൾടേജ് സ്രോതസ്സിന്റെ മൂല്യം നിശ്ചയിക്കുന്നു അപ്പോൾ ആ കേസിൽ എന്ത് സംഭവിക്കും ഇവിടെ പൂജ്യം ആയതിനാൽ ആശ്രിത വോൾടേജ് സ്രോതസ്സിന്റെ മൂല്യം അതായത് 120 0 ആകും അവസാനം യുടെ മൂല്യം 0 അയാൽ നിങ്ങൾക്ക് അവസാനം കിട്ടും ലളിതമാക്കിയാൽ കിട്ടും അപ്പോൾ തെവിനിയൻ റെസിസ്റ്റൻസ് ഇനി അടുത്ത കൃത്യം ആദ്യം തെവനിയൻ വോൾട്ടേജിൻറെ മൂല്യം കണ്ടുപിടിക്കുക എന്നതാണ് അപ്പൊൾ നമ്മൾ എന്തു ചെയ്യണം നമ്മൾ യഥാർത്ഥ സർക്യൂട്ട് എടുക്കണം അവിടെ സ്രോതസ്സുകൾ അങ്ങനെതന്നെ നിലനിർത്തുക അതുപോലെതന്നെ വോൾട്ടേജ് സ്രോതസ്സുകൾ നമ്മൾ ന്റെ കേസിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്തത് തിരിച്ചു സർക്യൂട്ട് ലേക്ക് വീണ്ടും വരും ഇനി നമ്മൾ വോൾട്ടേജ്ജിന്റെ മൂല്യം ഒരു കിലോ ഓമിന് കുറുകെ കണ്ടുപിടിക്കണം അതായത് അപ്പോൾ ഈ വിഭാഗത്തിൽ ഈ വിഭാഗം നോക്കിയാൽ കാണാം 8 വോൾട്ട് ഈ രണ്ട് റെസിസ്റ്ററിലേക്കും കറണ്ട് കൊടുക്കുന്നു അതായത് മൂന്ന് കിലോ ഓം ഒരു കിലോ ഓം രണ്ടും അതായത് ഇത് വേറൊന്നുമല്ല പക്ഷേ വോൾട്ടേജ് സർക്യൂട്ടിൽ വിഭജിച്ചിരിക്കുന്നു അവസാനം വോൾടേജ് ഒരു കിലോ ഓമിന് കുറുകെ അപ്പോൾ നമുക്ക് ഏതെങ്കിലും സമ്പ്രദായം ഉപയോഗിക്കാം സമ്പ്രദായം അതായത് ലളിതമായി യുടെ മൂല്യം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൂപ്പ് സമവാക്യം എഴുതാം എന്നിട്ട് യുടെ മൂല്യം കണ്ടുപിടിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് യുടെ മൂല്യം കിട്ടി ഇത് ആശ്രിത പരിവർത്തന വസ്തുവാണ് ഈ ആശ്രിത വോൾട്ടേജ് സ്രോതസ്സിൽ അടുത്തത് നിങ്ങൾക്കു എന്ത് ചെയ്യാം എന്നു വെച്ചാൽ നമുക്ക് ന്റെ മൂല്യം കണ്ടുപിടിക്കണം അപ്പോൾ ഇവിടെ നിങ്ങൾന്റെ മൂല്യം കണ്ടുപിടിച്ചാൽ എന്തു കിട്ടും നിങ്ങൾക്ക് വീണ്ടും വോൾട്ടേജ് വിഭജന സർക്യൂട്ട് കിട്ടും അല്ലെങ്കിൽ മറിച്ച് ലൂപ്പ് സമവാക്ക്യം എഴുതാം ന് ഇത് അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഉം ഉം കിട്ടി ഇനി നിങ്ങൾ പവർ കണ്ടുപിടിക്കും

ഇത് ലോഡിലേക്ക് കൊടുക്കുന്ന മാക്സിമം പവർ ആയിരിക്കും ഇത് ടെർമിനൽ എ ബി കു കുറുകെ ആയിരിക്കും അപ്പോൾ ഈ വഴിക്ക് നമുക്ക് മാക്സിമം പവർ ലോഡിലേക്ക് കൊടുക്കുന്നതിന്റെ മൂല്യം കണ്ടുപിടിക്കാം ആശ്രിത സ്രോതസ്സുകൾ ഉള്ളപ്പോൾ അടുത്തത് നമുക്ക് ആശ്രിത സ്രോതസ്സുകൾ ഉള്ള വേറൊരു സർക്യൂട്ട് ഉണ്ട് ഞാൻ ഇത് നിങ്ങൾ വീട്ടിൽ വെച്ചു ചെയ്യാൻ തരുന്നു അതിനാൽ നിങ്ങൾക്കു ആശ്രിത സ്രോതസ്സുള്ള സർക്യൂട്ട് എങ്ങനെ പരിഹരിക്കാം എന്ന മെച്ചപ്പെട്ട അറിവ് കിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു സൂചന നൽകാം പരിഹരിക്കുന്നതിനായി അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ന്റെ മൂല്യം ആണ് ഇത് ബാക്കി സർക്യൂട്ടിൽ നിന്ന് മാക്സിമം പവർ എടുക്കും ഇത് ബാക്കി സർക്യൂട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വച്ചാൽ നിങ്ങൾ ന്റെയും ന്റെയും മൂല്യം കണ്ടുപിടിക്കണം കണ്ടു പിടിക്കുന്നതിനായി നിങ്ങൾ ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യും നിങ്ങൾക്ക് ആ കേസിൽ സർക്യൂട്ട് ഇങ്ങനെ കിട്ടും അപ്പോൾ ഇതാണ് ആശ്രിത വോൾട്ടേജ് സ്രോതസ്സ് ഇത് 1 ഓം ഇത് 2 ഓം കൂടാതെ 4 ഓമും ഉണ്ട് തെവനിയൻ റെസിസ്റ്റൻസും കണ്ടു പിടിക്കണം ടെർമിനലിന് കുറുകെ 1 ആംപിയർ കറണ്ട് സ്രോതസ്സ് പ്രയോഗിക്കുക ടെർമിനലിന് കുറുകെ യുടെ മൂല്യം കണ്ടുപിടിക്കുക ന്റെ മൂല്യം ആംപിയർ ആയിരിക്കും അപ്പോൾ അത് പരിഹരിക്കുക അത് പരിഹരിക്കുമ്പോൾ ന്റെ മൂല്യം 11 22 ഓം കിട്ടും ഇതുപോലെത്തന്നെനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നുവെച്ചാൽ 9 വോൾട്ട് സപ്ലൈ 2 ഓം റെസിസ്റ്റൻസ് കൂടാതെ ആശ്രിത വോൾടേജ് സ്രോതസ്സ് ഉള്ള സർക്യൂട്ട് പരിഹരിക്കണം ഇവിടെ 4 ഓം റെസിസ്റ്റൻസ് ഉണ്ട് ഇതിനു ഒരു ശക്തിയായ സ്വാധീനം ഇല്ല കാരണം ടെർമിനൽ ഓപ്പൺ സർക്യൂട്ട് ആണ് നിങ്ങൾക്കു ഇവിടെ ന്റെ മൂല്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കാം ഉണ്ട് 1 ഓം റെസിസ്റ്റൻസ് ആശ്രിത വോൾടേജ് സ്രോതസ്സിൽ ഒപ്പം ഉണ്ട് ആശ്രിത വോൾടേജ് സ്രോതസ്സ് ആശ്രിത പരിവർത്തന വസ്തു ആശ്രിത സ്രോതസ്സ് ആശ്രിത വോൾടേജ് സ്രോതസ്സ് 2 ഓം റെസിസ്റ്റൻസിനു കുറുകെ വോൾടേജ് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം നമുക്ക് വളരെ ലളിതമായി ലൂപ്പ് സമവാക്യം എഴുതാം എന്നിട്ട് v യുടെ മൂല്യം കിട്ടുന്നതിനായി ലളിതമാക്കുക അപ്പോൾ ലളിതമാക്കുമ്പോൾ ന്റെ മൂല്യം 7 വോൾട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉം ഉം കിട്ടി p max ന്റെ മൂല്യം ലളിതമായി കണ്ടുപിടിക്കാം അപ്പോൾ ഈ സമവാക്യം പ്രയോഗിക്കുക എന്നിട്ട് p max മൂല്യം കണ്ടുപിടിക്കുക അത് നിങ്ങൾക്കു വീട്ടിൽ ചെന്ന് ചെയ്യാൻ വിട്ടു തന്നിരിക്കുന്നു നിങ്ങൾക്ക് തെവിനിയൻ തുല്യതയുടെ മൂല്യം കിട്ടും ഇതുവച്ച് നമ്മൾ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം